ഇനി നമുക്ക് മുന്നോട്ട് പോകാം എനിക്ക് കണക്കാക്കേണ്ട ഈ ഇന്റഗ്രലുകളിലേക്ക് കുറച്ച് ആഴത്തിൽ നോക്കാം എനിക്ക് വിഷമിക്കേണ്ട 2 ഇന്റഗ്രലുകൾ ഓർക്കുക ∫gdl ഉം ∫∇g nˆ ഉം ആയിരുന്നു ഓരോ സെഗ്മെന്റിലും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന രണ്ട് ഇന്റഗ്രലുകൾ ഇവയാണ് അതിനാൽ ഗ്രീൻസ് ഫംഗ്ഷനുകളെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ഒരു മൊഡ്യൂൾ മുഴുവനും ചെലവഴിച്ചു നമ്മൾ ഇവിടെയുള്ളതുപോലെ 2D ഗ്രീൻസ് ഫംഗ്ഷനുമായി എത്തി അതിനാൽ ഇത് − j4H0 ആണ് നമ്മൾ ഇതുവരെ കണക്കാക്കാത്ത ഒരു പദമാണ് എല്ലാവരും ഓർക്കുന്നത് എന്താണ് ∇g അതിനാൽ നൊട്ടേഷൻ അൽപ്പം എളുപ്പമാക്കാൻ ഇത് |r − r′| എല്ലായിടത്തും ദൃശ്യമാകുന്ന ഒരു സ്കെയിലർ 2 വെക്ടറുകൾ r നും r′ നും ഇടയിലുള്ള ദൂരം മാത്രമാണ് അതിനാൽ ഞാൻ അതിനെ ρ എന്നും എന്നും വിളിക്കും ഇപ്പോൾ ∇g ൽ എത്താൻ എനിക്ക് അത് ധ്രുവീയ കോർഡിനേറ്റുകളിൽ ചെയ്യാം അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റുകളിൽ ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് g യുടെ ഡെറിവേറ്റീവ് എടുക്കേണ്ടതുണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് ലളിതമായ ഒരു ഉത്തരം നൽകുന്നു അതിനാൽ ഒരു H0 ന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് H1 നൽകുന്നു എന്നതിന്റെ ഒരു വിവര വസ്തുത ഇതാ വീണ്ടും നിങ്ങൾക്ക് നൽകുന്നു ഇത് അതിലൊന്നാണ് അതിനാൽ ഇപ്പോൾ എനിക്ക് വിലയിരുത്തണമെങ്കിൽ ∇g ഞാൻ എന്തുചെയ്യണം ഞാൻ ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കും ഇപ്പോൾ എന്താണ് ∇g എനിക്ക് നിർവചനം ലളിതമായി ഉപയോഗിച്ച് ചെയ്യാം അപ്പോൾ ഈ വെക്റ്റർ എങ്ങനെയിരിക്കും അതിനാൽ എനിക്ക് ഉണ്ട് ഈ വെക്റ്ററിന്റെ ഈ വെക്റ്റർ ദൈർഘ്യത്തിന്റെ മാനദണ്ഡം എന്താണ് അത് ഒന്നാണ് ഇത് ഒരു യൂണിറ്റ് വെക്റ്റർ ആണ് ഈ വെക്റ്ററിന്റെ ദിശ എന്താണ് r − r′ അതിനാൽ വളരെ ലളിതമായി ഇത് ∇g jk4H1kρζˆ ζ r − r′ വീഡിയോയിലെ സ്ക്രിപ്റ്റ് r ആയി മാറുന്നു അതിനാൽ ഇത് നൊട്ടേഷൻ ലളിതമാക്കുന്നു ഞാൻ അർത്ഥമാക്കുന്നത് നമ്മൾ g α H0 ഉപയോഗിച്ചാണ് ആരംഭിച്ചത് എനിക്ക് g α H1 ലഭിച്ചു അത്ര സങ്കീർണ്ണമല്ല ഇപ്പോൾ g ഉം ∇g nˆ ഉം ഉള്ളിടത്തോളം ഈ രണ്ട് ഇന്റഗ്രലുകൾ മൂല്യനിർണ്ണയം നടത്തുമ്പോൾ ഈ പദങ്ങൾ പരിമിതമായിരിക്കുന്നിടത്തോളം ഒരു പ്രശ്നവുമില്ല എനിക്ക് ഗോസ് ക്വാഡ്രേച്ചർ റൂൾ ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ ഉപയോഗിക്കാം ഈ അളവുകൾ നന്നായി തുടങ്ങുമ്പോൾ പ്രശ്നം സംഭവിക്കും ഗ്രീൻസ് ഫംഗ്ഷനുകൾക്ക് ഉത്ഭവത്തിൽ ഒരു ഏകത്വം ഉണ്ടെന്ന് നമുക്കറിയാം ഈ കേസിൽ ഉത്ഭവം അർത്ഥമാക്കുന്നത് എപ്പോൾ r r′ എന്നാണ് അതാണ് ഏകത്വം ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ സംയോജനം നടത്തുമ്പോൾ ഞാൻ എന്താണ് ഉറപ്പിച്ചിരിക്കുന്നത് ഞാൻ സ്ഥിരമായി സൂക്ഷിക്കുന്നു r′ വലത് ഉറപ്പിച്ചിരിക്കുന്നു കൂടാതെ മുഴുവൻ അതിർത്തിയിലും ലൂപ്പിംഗിലൂടെ r എവിടേക്കാണ് പോകുന്നത് r′ അതിർത്തിയിലും ആണ് r′ അതിർത്തിക്ക് മുകളിലൂടെ വളയുന്നു അതിനാൽ r എന്നത് r′ വലത്തിന് തുല്യമാകാൻ പോകുന്ന ഒരു സെഗ്മെന്റെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ ആ ഘട്ടങ്ങളിൽ എന്ത് സംഭവിക്കും ഇത് ഉദാഹരണമാണ് വളരെ ചെറിയ ρ ന് ഹാങ്കെൽ ഫംഗ്ഷൻ എങ്ങനെ കാണപ്പെടുന്നു ഇത് നിങ്ങൾ ഇതിനകം കണ്ടിട്ടുള്ള കാര്യമാണ് അതിനാൽ ഇതിന് ഒരു യഥാർത്ഥ ഭാഗമുണ്ട് അത് ലോഗിനെ പോലെ കാണപ്പെടുന്ന ഒരു സാങ്കൽപ്പിക ഭാഗമാണ് അത് logρ പോലെയാണ് കൂടാതെ ρ → 0 ആയി logρ യുടെ മൂല്യം എന്താണ് −∞ അതിനാൽ ഇത് ഇവിടെ പ്രശ്നകരമായ ഇന്റഗ്രൽ ആയിരിക്കും അതിനാൽ ഇത് H2 H1 എന്തെങ്കിലും മെച്ചപ്പെട്ട രീതിയിൽ പെരുമാറുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല H1 ന് ഉത്ഭവസ്ഥാനത്ത് ഒരു സിംഗുലാരിറ്റി ഉണ്ട് ശരിയാണ് g ഉം ∇g ഉം ρ → 0 ആയി മാറുന്നു അതിനാൽ നമ്മുടെ സംയോജന തന്ത്രത്തിൽ നമ്മൾ 2 വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ r r′ എന്നത് സന്തോഷകരമായ കാര്യമായിരിക്കുമ്പോൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ നിങ്ങളുടെ സംഖ്യാ ക്വാഡ്രേച്ചർ ഉപയോഗിക്കുന്നു ശരിയാണ് ഇവിടെയുള്ള ഈ γ ഒരു സ്ഥിരാങ്കമാണ് അതിന്റെ ഒരു യൂലർ സ്ഥിരാങ്കം ഏകദേശം 0 57 അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണ് അപ്പോൾ എനിക്ക് ഈ പ്രോപ്പർട്ടികൾ എവിടെ നിന്ന് ലഭിക്കും ബെസ്സൽ ഫംഗ്ഷനുകളുടെ ഹാൻഡ്ബുക്കിൽ നിന്നാണ് എനിക്ക് ഈ പ്രോപ്പർട്ടികൾ ലഭിക്കുന്നത് ഈ പ്രത്യേക ഫംഗ്ഷനുകൾക്കെല്ലാം വളരെ നന്നായി ഡോക്യുമെന്റ് ചെയ്ത പ്രോപ്പർട്ടി ഗ്രാഫുകൾ ഉണ്ട് അവയെല്ലാം ഞാൻ കൃത്യമായി ഒരു റഫറൻസ് ഉൾപ്പെടുത്തും അതിനാൽ r എന്നത് r′ ന് തുല്യമല്ലെങ്കിൽ ഞാൻ സംഖ്യാ ക്വാഡ്രേച്ചർ റൂളുകൾ ഉപയോഗിക്കും r r′ അവയാണ് സിംഗുലാർ ഇന്റഗ്രലുകൾ എന്ന് വിളിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സെഗ്മെന്റുകൾ ഇവ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് ഈ ഇന്റഗ്രലുകൾ എങ്ങനെ വിലയിരുത്താമെന്ന് നമ്മൾ അടുത്തതായി നോക്കും സങ്കീർണ്ണമായ വിശകലനത്തിൽ ഒരു കോഴ്സ് ചെയ്തിട്ടുള്ള നിങ്ങളിൽ ചിലർക്ക് പരിചിതമായ ചിലത് കാണും ഇല്ലെങ്കിൽ കുഴപ്പമില്ല അതിനാൽ ഇതാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ പൊതുവായ ആശയം വ്യക്തമാണ് ഈ രണ്ട് സമവാക്യങ്ങളും പരിഹരിക്കുന്ന പ്രക്രിയയിൽ ഈ രണ്ട് സമവാക്യങ്ങളും പരിഹരിക്കുക എന്നതാണ് നമ്മുടെ അടിസ്ഥാന പ്രചോദനം എന്നത് എല്ലായ്പ്പോഴും ഓർമ്മിക്കുക ചില നിബന്ധനകൾ എളുപ്പമാണ് ചില നിബന്ധനകൾ എളുപ്പമല്ല കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു പടി കൂടി പിന്നോട്ട് പോകാം ഒരിക്കൽ നമ്മൾ ഈ സമവാക്യങ്ങൾ പരിഹരിച്ചു അവസാനമായി സ്പെയ്സിൽ എവിടെയും ഫീൽഡ് കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് എന്റെ ലക്ഷ്യം പിന്നീട് ഞാൻ 1 സ്ലൈഡ് കൂടി തിരികെ പോകുന്നു ഞാൻ വിലയിരുത്തിയ ഈ നിബന്ധനകൾ തിരികെ നൽകുന്നതിന് ഹ്യൂഗൻസ് തത്വം ഉപയോഗിക്കുന്നു എനിക്ക് എല്ലായിടത്തും ഫീൽഡ് കണ്ടെത്താൻ കഴിയും അതിനാൽ നമ്മൾ സൂം ഇൻ ചെയ്ത് കൂടുതൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നോക്കുന്ന മൊത്തത്തിലുള്ള ചിത്രം കാണാതെ പോകരുത് പക്ഷേ അതാണ് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നതെന്ന് ഓർമ്മിക്കുക അതിനാൽ സമവാക്യങ്ങൾ പരിഹരിക്കുന്നതും ഇവയാണ് പ്രശ്നകരമായ നിബന്ധനകൾ ഇനി നമുക്ക് കുറച്ചുകൂടി നോക്കാം അതിനാൽ x വളരെ ചെറുതായതിനാൽ നമുക്ക് ലഭിക്കുന്ന 2 തരത്തിലുള്ള സിംഗുലാരിറ്റി എന്തൊക്കെയാണ് H0 ഈ log പോലെയാണ് കാണപ്പെടുന്നത് H1 എന്നതിന് ഇവിടെ ഒരു അസിംപ്റ്റോട്ടിക് രൂപമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് പ്രശ്നകരമായ പദമാണ് അതിനാൽ x 0 ആയി മാറുമ്പോൾ 1x വർദ്ധിക്കുന്നു ഈ രണ്ട് പ്രവർത്തനങ്ങളും അല്പം വ്യത്യസ്തമായ രീതികളിൽ അനന്തതയിലേക്ക് പ്രവണത കാണിക്കുന്നതായി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അവ അല്പം വ്യത്യസ്തമായ രീതികളിൽ അനന്തതയിലേക്ക് പ്രവണത കാണിക്കുന്നു അതിനാൽ ഇത് ഗണിതശാസ്ത്രപരമായി എങ്ങനെ പ്രകടമാകുമെന്ന് നോക്കാം അതിനാൽ എനിക്ക് ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക ഒടുവിൽ ഞാൻ പരിധി ε → 0 എടുക്കാൻ പോകുന്നു ഇപ്പോൾ ഇത് നമ്മൾ ε ന് മുമ്പാണ് വിലയിരുത്തുക എനിക്ക് ഉത്ഭവത്തിൽ ഒരു ഏകത്വമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു ഞാൻ അത് ഏകീകരണത്തിൽ ഉൾപ്പെടുത്തുന്നു ഞാൻ പരിധി ε → 0 എടുക്കുന്നു എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത് പൊട്ടിത്തെറിക്കേണ്ടതാണ് അതാണ് നിങ്ങൾ അവബോധപൂർവ്വം ചിന്തിക്കുന്നത് ഈ സാഹചര്യത്തിൽ എനിക്ക് എന്താണ് ഉള്ളത് ഈ ഇന്റഗ്രലുകൾ നിസ്സാരമായി നിലവിലുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല എനിക്ക് എന്റെ യഥാർത്ഥ നടപടിക്രമത്തിലേക്ക് മടങ്ങാം എല്ലാ സെഗ്മെന്റുകളിലുമുള്ള ഇന്റഗ്രൽ വിലയിരുത്താം എന്റെ സമവാക്യങ്ങളുടെ സിസ്റ്റം നേടുക ഞാൻ അവിടെയുണ്ട് എന്നാൽ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സൂം ഇൻ ചെയ്ത് ഇത് സാധ്യമാണോ എന്ന് നോക്കാം അപ്പോൾ log ന്റെ അവിഭാജ്യഘടകം എന്താണ് xlog x അത് ε a എന്നിവയിൽ വിലയിരുത്തുക നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ ഒരു ഡെറിവേറ്റീവ് എടുക്കുക നിങ്ങൾക്ക് xx log − 1 log ലഭിക്കും അതിനാൽ ഇത് എനിക്ക് alog − a − εlogε ε നൽകാൻ പോകുന്നു അതിനാൽ ε → 0 alog − a − ε ഒരു പ്രശ്നവുമില്ല − εlogε യുടെ കാര്യമോ ഞാൻ ഇത് എങ്ങനെ വിലയിരുത്തും എൽ ഹോപ്പിറ്റലിന്റെ റൂൾ L Hopital's rule അതിനാൽ ഞാൻ limε→0εlogε limε→0logε1ε ചെയ്യും ഇപ്പോൾ അത് ഏത് രൂപത്തിലാണ് ഈ സാഹചര്യത്തിൽ അനന്തതയിൽ നിന്നുള്ള അനന്തത എനിക്ക് അത് ഒന്നുകിൽ ശരിയായ രീതിയിൽ ചെയ്യാൻ കഴിയും അതിനാൽ ഇത് limε→01ε1ε2 0 ആയി മാറും അതിനാൽ ഒരു ഏകത്വമുള്ള ഒരു ഫംഗ്ഷൻ ഞാൻ സംയോജിപ്പിച്ചു എനിക്ക് ഇത് മാത്രം ലഭിച്ചു ഈ ഏകത്വത്തെയാണ് ഇന്റഗ്രബിൾ ഓൾ എന്ന് വിളിക്കുന്നത് അതിനാൽ g യുടെ ഏകത്വം അവിഭാജ്യമാണ് അതിനാൽ ഒരു g പദമുണ്ടായിരുന്നിടത്തെല്ലാം ആ മൊമെന്റ് പദങ്ങളുടെ മൂല്യനിർണ്ണയത്തിലേക്ക് ഞാൻ തിരികെ പോകുമ്പോൾ ആർഗ്യുമെന്റ് ρ → 0 ആണെങ്കിലും ഒരു പ്രശ്നവുമില്ല കാരണം ഫംഗ്ഷൻ ഒരു ഡെൽറ്റ ഫംഗ്ഷൻ പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇന്റഗ്രൽ പരിമിതമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഡെൽറ്റ ഫംഗ്ഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിന്റെ അവിഭാജ്യ ഘടകം പരിമിതമാണ് അതിനാൽ അതൊരു ഏകത്വമാണ് എന്നാൽ ഇന്റഗ്രേറ്റബിൾ സിംഗുലാരിറ്റി എന്ന് പറയുക ഇപ്പോൾ ഇവിടെ മറുവശത്ത് എനിക്ക് ഈ രണ്ടാമത്തെ ടേം ഇവിടെയുണ്ട് അത് 1x ആയി മാറുന്നു ഇപ്പോൾ ഞാൻ ഇത് മൂല്യനിർണ്ണയം ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് എന്താണ് ലഭിക്കുക logεa log − logε ന് തുല്യമായത് ഈ പരിധി നിലവിലുണ്ടോ ഈ പരിധി ശരിയല്ല അതിനാൽ ഇവിടെ ഈ പദം പൊട്ടിത്തെറിക്കുന്നു അതിനാൽ എനിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് അത് log ആയി പോകുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് അത് ഉത്ഭവത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇന്റഗ്രൽ പോലും ശരിയാകില്ല അതിനാൽ ഇത് ഒരു ഡബിൾ ഡെൽറ്റ ഫംഗ്ഷൻ സംയോജിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് ഇത് ഒരിക്കൽ സംയോജിപ്പിക്കാൻ കഴിയും അതായത് ഞാൻ ഒരിക്കൽ സംയോജിപ്പിച്ചാൽ എനിക്ക് പരിമിതമായ ഒന്നും ലഭിക്കില്ല പക്ഷേ ഞാൻ അത് രണ്ട് തവണ സംയോജിപ്പിച്ചാൽ ഞാൻ ഇതുമായി സംയോജിപ്പിക്കുമ്പോൾ എനിക്ക് log ലഭിച്ചു ഇത് ഒരിക്കൽ കൂടി സംയോജിപ്പിച്ചാൽ log പരിമിതമായ എന്തെങ്കിലും എനിക്ക് ലഭിക്കും അതിനാൽ ഇവിടെയുള്ള ഈ ഏകത്വം ചില അർത്ഥത്തിൽ ശക്തമായ ഏകത്വമാണ് തുടർന്ന് log അതിനാൽ ഈ അവിഭാജ്യതയെ ഞാൻ അതിനെ ഒരു കൺവെർജന്റ് ഇന്റഗ്രൽ എന്ന് വിളിക്കും ഇത് ഒരു വ്യത്യസ്ത ഇന്റഗ്രൽ ആണ് അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് അതാണ് ഗ്രാഡ് g യുടെ സിംഗുലാരിറ്റി ഇന്റഗ്രബിൾ അല്ല ഇത് അവിഭാജ്യമാണ് അതിനാൽ നമ്മൾ സൂം ഇൻ ചെയ്തതായി നമ്മൾ തിരിച്ചറിഞ്ഞു പ്രധാന പ്രശ്നകരമായ കഥാപാത്രം ഈ H1 ആണെന്ന് കണ്ടെത്തി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ വിദ്യാർത്ഥി നമ്മൾ ഇത് സീരീസ് പ്രകാരം ഏകദേശം കണക്കാക്കിയാലോ നമ്മൾ ഇതിനെ ഒരു വലിയ സീരീസ് രീതിയിൽ കണക്കാക്കിയാലോ അതിനാൽ നിങ്ങൾ അതിനെ ഒരു വലിയ സീരീസ് ഉപയോഗിച്ച് ഏകദേശം കണക്കാക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നിബന്ധനകൾ ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് x ന്റെ ഉയർന്ന ശക്തികൾ ലഭിക്കും എന്നാൽ ആദ്യ പദം നിങ്ങൾക്ക് അവഗണിക്കാനാവില്ല എന്നതാണ് പ്രധാന കാര്യം ആദ്യ ടേം എപ്പോഴും ശരിയായിരിക്കും അതിനാൽ ആ നിബന്ധനകൾ ഓരോന്നും ഒരു പരിമിത സംഖ്യയിലേക്ക് ഒത്തുചേരണം അത് സംഭവിക്കില്ല അതിനാൽ ആദ്യ ടേം തന്നെ ഒത്തുചേരുന്നില്ലെങ്കിൽ ഇപ്പോൾ അത് ഒത്തുചേരാൻ പോകുന്നില്ല അതിനാൽ ഒരു ക്വാഡ്രേച്ചർ റൂൾ ഉപയോഗിച്ച് ഞാൻ ഈ H1 സമന്വയിപ്പിച്ചാൽ എനിക്ക് ഇതേ പ്രശ്നമുണ്ടാകുമോ എന്നതാണ് ചോദ്യം അതെ കാരണം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചില അവിഭാജ്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ചില പരിമിതമായ പോയിന്റുകളിൽ നിങ്ങൾ ഫംഗ്ഷന്റെ മൂല്യം എടുക്കും നിങ്ങൾ ക്വാഡ്രേച്ചർ റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉത്തരം ലഭിക്കും കാരണം അതിന്റെ സംഖ്യകൾ നിങ്ങൾക്ക് സംഗ്രഹം പറയുന്ന ക്വാഡ്രേച്ചർ റൂൾ എന്താണെന്ന് അറിയാൻ കഴിയും ∑wkf നിങ്ങൾ xk 0 തിരഞ്ഞെടുക്കുന്നിടത്തോളം നിങ്ങൾ ഇത് കുറച്ച് പരിമിത സംഖ്യയായി തിരഞ്ഞെടുത്തു ഇതിന് നിങ്ങൾക്ക് കുറച്ച് ഉത്തരം ലഭിക്കും എന്നാൽ സൈദ്ധാന്തികമായി ഈ അവിഭാജ്യഘടകം വ്യത്യസ്തമാണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ കൂടുതൽ ഭയാനകമാണ് കാരണം നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കുകയും അത് നിലവിലുണ്ടെന്ന് നിങ്ങൾ കരുതുകയും ചെയ്യുന്നു പക്ഷേ അത് നിലവിലില്ല അതിനുള്ളിൽ ഒരു ഏകത്വമുണ്ടെന്ന് നിങ്ങൾക്കറിയുമ്പോൾ അത് നിലവിലില്ല സിംഗുലാരിറ്റി എക്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നു പക്ഷേ നിങ്ങൾ ഒരു ക്വാഡ്രേച്ചർ റൂൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഉത്തരം ലഭിക്കും കാരണം സൈദ്ധാന്തികമായി ഈ അവിഭാജ്യഘടകം വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഒരു ഉത്തരം ലഭിച്ചാൽ അത് സംശയാസ്പദമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം